ഈ പ്രഭാഷണത്തിലേക്കു സ്വാഗതം കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മെൻറ് നെക്കുറിച്ചുള്ള വളരെ ചെറിയ ആമുഖവും സോഫ്റ്റ്വെയർ ടെക്നോളജി നിന്നുള്ള പ്രചോദനവും ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെൻറ് പരമ്പരാഗത പ്രോജക്ട് മാനേജ്മെൻറ് നിന്നും പ്രോജക്റ്റിനെ വ്യാപ്തിയിൽ നിന്നും എങ്ങനെ വ്യത്യസ്ത പെട്ടിരിക്കുന്നു സ്റ്റേക്ക് ഹോൾഡർ തുടങ്ങിയവ ഈ പ്രഭാഷണത്തിൽ സോഫ്റ്റ്വെയർ ഉൽപന്നങ്ങളുടെയും സേവനങ്ങളുടെയും കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും കാരണം ഇവ ഏറ്റെടുക്കുന്ന രണ്ട് പ്രധാന തരം പ്രോജക്ടുകളാണ് സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജർ ഈ രണ്ടു തരത്തിലുള്ള പ്രോജക്റ്റുകളും കൈകാര്യം ചെയ്യണം സോഫ്റ്റ്വെയർ ഉൽപന്ന വികസനപദ്ധതികളും സേവന തരങ്ങളും പ്രോജക്റ്റ് മാനേജരുടെ പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുന്നു കൂടാതെ പരമ്പരാഗതവും ആധുനികവുമായ പ്രോജക്റ്റുകൾ നമ്മൾ നോക്കുന്നു ലോകമെമ്പാടും രണ്ട് പ്രധാന തരം സോഫ്റ്റ് വെയറുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഒരെണ്ണം സോഫ്റ്റ്വെയർ ഉൽപ്പന്ന വികസനം എന്ന് വിളിക്കുന്നു സോഫ്റ്റ്വെയർ ഉൽപന്നങ്ങളാണ് മറ്റേതൊരു ഉൽപാദനത്തെയും പോലെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നത്നിങ്ങൾക്ക് കടയിലേക്ക് പോകാം അല്ലെങ്കിൽ ഓൺലൈനായി ഓർഡർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആൻറിവൈറസ് പാക്കേജ് ആവശ്യമാണെന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായി ഓർഡർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി കൂട്ടിച്ചേർക്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷേ സേവനങ്ങൾ ഇച്ഛാനുസരണം ആക്കിയ സോഫ്റ്റ്വെയർ സേവനങ്ങളാണ് സോഫ്റ്റ്വെയർ സേവനങ്ങൾ പൊതുവായ സ്വഭാവം ഉള്ള പാക്കേജ് ചെയ്ത സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു ഒരു ഓൺലൈൻ പുരയിടത്തിൽ നിന്ന് സ്വയം വാങ്ങാൻ ഇവ ലഭ്യമാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇവ എല്ലാവർക്കും മുൻകൂട്ടി എഴുതിയ സോഫ്റ്റ്വെയർ ആണ് ആർക്കും ഇത് ഓർഡർ ചെയ്ത ഡെലിവർ ചെയ്യാൻ കഴിയും ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയറിനെ വികസനമാണ് മറ്റൊരു തരം പ്രോജക്റ്റ് നിർദ്ദിഷ്ട ഉപയോക്ത്യാ അഭ്യർത്ഥനയെ അടിസ്ഥാനമാക്കിയാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ ആയി അവരുടേതായ സാധാരണ ആവശ്യകതകൾ ഉള്ള ഒന്നോ അല്ലെങ്കിൽ കുറച്ച് ഉപയോക്താക്കളും ഉണ്ടായിരിക്കാം വികസ്വര ഓർഗനൈസേഷൻറെ മനസ്സിൽ കുറച്ച് ഉപയോക്താക്കൾ മാത്രമേ ഉള്ളൂ അവർ കുറച്ച് ഉപയോക്താക്കളെ വെച്ച് ആരംഭിക്കുന്നു അവർ ഈ പ്രോജക്ട് ആരംഭിക്കുകയും തുടർന്ന് വികസന ഓർഗനൈസേഷൻ അവർക്കായി വികസിപ്പിക്കുകയും അവർക്ക് നൽകുകയും ചെയ്യുന്നു ഇവ ആർക്കും വാങ്ങുന്നതിനായി ലഭ്യമായ സാധാരണ സോഫ്റ്റ്വെയർ അല്ല എന്നാൽ മറ്റൊരു ഇഷ്ടാനുസൃത സോഫ്റ്റ്വെയർ ഉണ്ട് അവിടെ ഡെവലപ്പർമാർക്കു ഒരു പരിഹാരമുണ്ട് ഒപ്പം ഓരോ ഉപഭോക്താവിനും ആവശ്യമായ ചെറിയ പരിഷ്കരണങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഒരു അക്കാദമിക ഇൻസ്റ്റ്യൂട്ട് പറയാം ഇതിന് പ്രവർത്തനങ്ങൾ യാന്ത്രികം ആകേണ്ടതുണ്ട് ഉദാഹരണത്തിന് വിദ്യാർത്ഥി പ്രവേശന ഗ്രേഡിങ് തുടങ്ങിയവ ഒരു കമ്പനി ഈ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓട്ടോമേഷൻ ആയി ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കാം എന്നാൽ ഓരോ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെതായ ഗ്രേഡിംഗ് സിസ്റ്റം പ്രവേശന പ്രക്രിയ ഉണ്ട് അതിനാൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ഇവിടെ വികസ്വര ഓർഗനൈസേഷൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് ചില ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഉപഭോക്താക്കൾക്കു വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് എന്നാൽ മറ്റൊരു ഉപഭോക്താവിന് ചെറിയ മാറ്റങ്ങൾ ആവശ്യമാണ് ഇവിടെ വികസ്വര ഓർഗനൈസേഷൻ അതിൻറെ സോഫ്റ്റ്വെയർ ഇതിനകംതന്നെ ഉള്ള ഒരു പ്രോജക്ട് ആരംഭിക്കുന്നു ഈ പ്രോജക്ടിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ചെയ്യാവൂ അതിനാൽ ആദ്യത്തേത് ഒരു ഉൽപ്പന്നം വികസന പദ്ധതിയാണ് അവിടെ വികസ്വര ഓർഗനൈസേഷന് പൊതുവായ ഉപഭോക്ത്യ ആവശ്യമുണ്ട് കൂടാതെ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുകയും ചെയ്യുന്നു മറ്റ് രണ്ട് സേവന പദ്ധതികളാണ് ഇവ ഇച്ഛാനുസൃത സോഫ്റ്റ്വെയർ ഒരാൾ നിർദിഷ്ട ഉപയോക്താവാണ് രണ്ടാമത്തേത് നിലവിലുള്ള പരിഹാരത്തിൽ വ്യതാസങ്ങൾ വരുത്താവുന്ന സോഫ്റ്റ്വെയറിൻറെ ഉൽപ്പന്ന തരം തരങ്ങളായി തിരിക്കാം ഒന്ന് ഹൊറിസോണ്ടെൽ മാർക്കറ്റ് മറ്റൊന്ന് വെർട്ടിക്കൽ മാർക്കറ്റ് വെർട്ടിക്കൽ മാർക്കറ്റ് ഒരുപക്ഷേ നമുക്ക് ബാങ്കിംഗ് പറയാം അല്ലെങ്കിൽ അനുവദിക്കുക ടെലികോം ബില്ലിന് അല്ലെങ്കിൽ മെഡിക്കൽ inventory മാനേജ്മെൻറ് അല്ലെങ്കിൽ ഒരു ആശുപത്രി മാനേജ്മെൻറ് തുടങ്ങിയവ നമുക്ക് പറയാം അതിനാൽ ഇത് ബാങ്കിംഗ് ടെലികോം ഹോസ്പിറ്റൽ തുടങ്ങിയ നിർദിഷ്ട ലംബങ്ങൾക്കായുള്ളതാണ് ഹൊറിസോണ്ടെൽ മാർക്കറ്റ് എല്ലാതരം ഉപഭോക്താക്കളെയും ഉണ്ട് ഉദാഹരണത്തിന് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ് അല്ലെങ്കിൽ ഒരു ആൻറിവൈറസ് സോഫ്റ്റ്വെയർ തുടങ്ങിയവ പൊതുവായ സ്വഭാവം ഉള്ള ഉപയോക്താക്കൾക്ക് ഇവ വിൽക്കുന്നു പ്രത്യേകതരത്തിലുള്ള ഉപഭോക്താക്കളെ മനസ്സിൽ കാണുന്നില്ല പ്രൊജക്റ്റ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണോ അതോ എംബെഡ്ഡ്ഡ് സിസ്റ്റമാണോ വികസിപ്പിക്കാൻ ഉദ്ധേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മറ്റൊരു വർഗീകരണം ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ഡാറ്റ ശേഖരിക്കുകയും ഡാറ്റ സംഭരിക്കുകയും തുടർന്ന് ചില സ്ഥിതിവിവരക്കണക്കുകളും മറ്റു ചില ഔപുട്ടും സൃഷ്ടിക്കുന്നതിന് ഈ ഡാറ്റ പ്രോസസ് ചെയ്യുന്നു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം ഇവിടെ ഒരു ട്രേഡിങ് ഹൌസ് നിരവധി ചരക്കുകളുമായി ഇടപെടുന്നുവെന്ന് പറയട്ടെ അത് ബൽക് നിരക്കിൽ വാങ്ങുകയും വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ഇവിടെ മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപഭോക്താവിനെ ആവശ്യകത എന്താണെന്ന് ട്രാക്ക് ചെയ്യും തുടർന്ന് ഈ ആവശ്യകതകൾ ബൾക്കായി നൽകുക എന്നിട്ട് ഇത് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും അക്കൌണ്ടുകൾ മാനേജ് ചെയ്യുകയും വിവിധ തരം സ്ഥിതിവിവരക്കണക്കുകൾ കുറിച്ച് ഇൻവെന്ററി ലെവൽ ലാഭനഷ്ടം തുടങ്ങിയവയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ സിസ്റ്റം ഹോട്ടൽ മാനേജ്മെൻറ് സോഫ്റ്റ്വെയർ ആയിരിക്കാം ഇവിടെ ഒരു ഹോട്ടലിലെ അതിഥികളൾ പേ ബിൽ രജിസ്റ്റർ ചെയ്യുക ഹോട്ടൽ റൂം ഒക്യുപെൻസി ലാഭനഷ്ടം തുടങ്ങിയ കൈകാര്യം ചെയ്യുന്നത് ഹോട്ടൽ മാനേജ്മെൻറ് സോഫ്റ്റ്വെയറാണ് നമുക്ക് ഒരു പേഷ്യന്റ് മാനേജ്മെൻറ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കാംഇതിൽ ഒരു ആശുപത്രിയിലെ രോഗികൾ അടയ്ക്കുന്ന ബില്ലുകൾഅതുപോലെ ആശുപത്രിക്കു ഡോക്ടർമാർക്ക് കൊടുക്കേണ്ട ശമ്പളം അതിനെല്ലാം ശേഷം ലാഭ നഷ്ട കണക്കു പ്രസ്താവിക്കുക എന്നിവ ഉൾപ്പെടുന്നു ഈ വിവരങ്ങൾ എല്ലാം ഒന്നുകിൽ വെബ് അധിഷ്ഠിത ആയിരിക്കാം അല്ലെങ്കിൽ ഇവ സ്വയം പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കാം ഒരു വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിൽ ഒരു വെബ് ബ്രൌസർ ഉപയോഗിച്ച് എവിടെ നിന്നും സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പി ക്കാൻ കഴിയും അതേസമയം ഒരു സ്വയം പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇത് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് വിരുദ്ധമായി എംബെഡ്ഡ്ഡ് സോഫ്റ്റ്വെയർ ചില ഹാർഡ്വെയർ നിയന്ത്രിക്കുന്നതിനായാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് അതുകൊണ്ടു തന്നെ ഇവിടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു കൂടാതെ അതിനെ നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ നിയന്ത്രണ സോഫ്റ്റ്വെയർ ന്യൂക്ലിയർ പ്ലാൻറ് നിയന്ത്രണ സോഫ്റ്റ്വെയർ റോബോട്ടുകൾ കളിപ്പാട്ടുകൾ എന്നിവ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ടിവി റിമോട്ട്TV Remote തുടങ്ങിയവ നമ്മൾ ചർച്ച ചെയ്യുന്ന സോഫ്റ്റ്വെയർ സേവനങ്ങൾ ഒരു വ്യത്യസ്ത തരം പ്രോജക്ടുകൾ ആണ് സോഫ്റ്റ്വെയർ ഉൽപന്ന പ്രോജക്ടുകൾ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഇതിനുണ്ട് ഒരു സാധാരണ ഉൽപാദനം വർധിപ്പിക്കുന്നതിന് ആണ് സോഫ്റ്റ്വെയർ ഉൾപ്പെട്ട പ്രോജക്ട് വികസിപ്പിക്കുന്നത് അതേസമയം സോഫ്റ്റ്വെയർ സേവനങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയറിൻറെ ഇച്ഛാനുസൃതമാക്കൽ അല്ലെങ്കിൽ ഉപഭോക്ത അഭ്യർഥനപ്രകാരം ചില ഈനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടാം ഇത് വൈകി ഒരു പ്രധാന തരം പ്രോജക്ടുകൾ ആയിമാറി സോഫ്റ്റ്വെയർ വികസന പദ്ധതികളിൽ പലതും സോഫ്റ്റ്വെയർ സേവന പ്രോജക്ടുകളാണ് എന്നാൽ സോഫ്റ്റ്വെയർ സേവനം എന്ന പദം കുറേയധികം കാര്യങ്ങൾ വിവരിക്കുന്ന പദമാണ് അതിൽ പലതും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നിർദിഷ്ട ഉപഭോക്ത്യ അഭ്യർത്ഥന യിൽ നിലവിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഇച്ഛാനുസൃതമാക്കൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ പരിപാലനം പക്ഷേ ഉപഭോക്താവിന് ചില മാറ്റങ്ങൾ ഒരുപക്ഷേ മെച്ചപ്പെടുത്തലുകൾ ആവശ്യപ്പെടുന്നു ഒരുപക്ഷേ കാര്യക്ഷമത മെച്ചപ്പെടുത്തും മറ്റും സോഫ്റ്റ്വെയർ പരിപാലിക്കുന്ന അതിനുള്ള ഒരു പ്രോജക്ട് ഒരുതരം സേവന പ്രോജക്ട് കൂടിയാണ് സോഫ്റ്റ്വെയർ പരിശോധന ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ വിന്യാസ പരീക്ഷിക്കുന്നതിന് മുൻപ് ഒരു ഓർഗനൈസേഷൻ സോഫ്റ്റ്വെയർ പരിശോധന നടത്തുകയും അവർ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ മറ്റൊരു പ്രോഗ്രാമിലേക്ക് കരാർ പ്രോഗ്രാമർ മാരെ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ റെ കാര്യമോ ചില പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോടി അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പോലുള്ള മറ്റ് ഏൽപ്പിക്കപ്പെട്ട അസൈമെന്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ കരാർ പ്രോഗ്രാമർ മാരെ ലഭിക്കുന്നു ഇതൊരു തരം സോഫ്റ്റ്വെയർ സേവനമാണ് എന്നാൽ കൂടുതൽ കൂടുതൽ പ്രോജക്ടുകൾ സേവന തരങ്ങളായി മാറുന്നുവെന്നാണ് കാരണമെന്താണ് ഏകദേശം 50 വർഷം മുമ്പ് നിലവിലുള്ള സോഫ്റ്റ്വെയർ പ്രോജക്ടുകൾ മാത്രമാണ് സോഫ്റ്റ്വെയർ ഉൽപ്പന്ന വികസന തരം പ്രോജക്ടുകൾ എന്നാൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രോജക്റ്റുകൾ സേവന തരത്തിലുള്ള പ്രോജക്ടുകൾ ആയി മാറുന്നു കൂടാതെ ശുദ്ധമായ ഉൽപ്പന്ന വികസനത്തിൽ നിന്ന് സേവനത്തിനുള്ള പ്രോജക്റ്റുകൾ ഇലേക്ക് ഈ കുടിയേറ്റത്തിന് കാരണമായത് എന്താണെന്ന് അന്വേഷിക്കാം അതിലൊന്ന് വർഷങ്ങളായി കമ്പനി ധാരാളം കൂടുതൽ എഴുതിയിട്ടുണ്ട് ഒരു പുതിയ അഭ്യർത്ഥന ഉണ്ടാകുമ്പോൾ എല്ലാം നിലവിലുള്ള ചില കോഡുകൾ പരിഷ്കരിച്ച് കൊണ്ട് കമ്പനിക്ക് ഏറ്റവും ഫലപ്രദമായി സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ കഴിയും ഉപഭോക്ത്യ ആവശ്യകതയ്ക്കു ഏറ്റവും അടുത്തുള്ള കോഡ് ഏതെന്ന് ഇത് കണ്ടെത്താനാകും ഇത് ഒരു പ്രോജക്ട് ആയിരിക്കാം അല്ലെങ്കിൽ പൂർത്തിയായ നിരവധി പ്രോജക്ടുകളിൽ ആകാം അതിനുശേഷം ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താനും സോഫ്റ്റ്വെയർ ഉപഭോക്താവിന് വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ കഴിയും ഇതൊരു സേവന പദ്ധതി കൂടിയാണ് കമ്പനികൾ ഇത് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം ഇതാണ് അവർക്ക് മുമ്പ് ധാരാളം പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയ ധാരാളം കോഡുകൾ ഉണ്ട് മാത്രമല്ല അഭ്യർത്ഥിച്ച് അടുത്ത സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് അവ വീണ്ടും ഉപയോഗിക്കാനാകും ബിസിനസ് വേഗത ഗണ്യമായി വർദ്ധിച്ചു എന്നതാണ് മറ്റൊരു കാരണം ഇതിനർത്ഥം വളരെയധികം മത്സരങ്ങൾ ഉണ്ടെന്നാണ് വിവിധ വ്യവസായങ്ങൾക്ക് ഇടയിൽ വ്യത്യസ്ത മത്സരങ്ങൾ ഉണ്ട് വ്യത്യസ്ത കമ്പനികൾ സോഫ്റ്റ്വെയർ വികസനത്തിനായി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ അക്ഷമരായി തീരുന്നു മൾട്ടി ഇയർ പ്രോജക്ടുകൾ ഇല്ലാതായി ആരും അവരെ ആഗ്രഹിക്കുന്നില്ല ഒരു സോഫ്റ്റ്വെയർ വികസന പ്രവർത്തനം രണ്ടാഴ്ച ഒരുമാസം മുതലായവ പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലുള്ള സോഫ്റ്റ്വെയറിനെ ഇഷ്ടാനുസൃതം ആക്കൽ ഉള്ള ഒരു സേവനം തരം പ്രോജക്ട് ഉള്ളതാണ് ഈ വികസന അഭ്യർത്ഥന നിറവേറ്റുന്നതിനുള്ള മാർഗ്ഗം മൂന്നാമത്തെ കാരണം പ്രോഗ്രാം വലുപ്പങ്ങൾ വലുതായി തീർന്നിരിക്കുന്നു അതിനാൽ അതിനാൽ മിക്ക കോഡുകളും വീണ്ടും ഉപയോഗിക്കേണ്ടത് അത്യന്താപേഷിതമാണ് മാത്രമല്ല ചെറിയ വികസനം മാത്രമേ നടത്തുകയുള്ളൂ പ്രവർത്തി പൂർത്തിയാക്കാൻ ചെറിയ ഇഷ്ടാനുസൃതമാക്കൽ എന്നാൽ ലോകമെമ്പാടും ഉം പ്രോജക്ടുകളിൽ പകുതിയോളം ഉൽപ്പന്ന തരത്തിലുള്ള പ്രോജക്ടുകളാണ് മറ്റൊരു പകുതി സേവനങ്ങളും തീർച്ചയായും സേവനങ്ങളുടെ തരം വളരെ വേഗത്തിൽ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇന്ത്യൻ കമ്പനികളെ നോക്കുകയാണെങ്കിൽ മിക്ക പ്രോജക്ടുകളും സേവന വിഭാഗത്തിൽ ആണെന്ന് ഇവിടെ നമ്മൾ കണ്ടെത്തി എന്തുകൊണ്ടാണ് നമ്മൾക്ക് വളരെ കുറച്ച് ഉൾപ്പന്ന വികസനപദ്ധതികൾ ഉള്ളത് സോഫ്റ്റ്വെയർ പൂർത്തിയായി വിപണിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്ന വികസനപദ്ധതിക്ക് നേട്ടം ഉണ്ട് ഉൽപന്നം വികസിപ്പിച്ച കമ്പനിക്ക് സ്ഥിരമായ വരുമാനം ഉണ്ട് ഉദാഹരണത്തിന് ഒറാക്കിൾ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് സ്ഥിരമായ വരുമാനം നൽകുന്നു അതേസമയം ഒരു സേവനവാരം പ്രൊജക്റ്റ് രീതിയിൽ കമ്പനിക്ക് ലഭിക്കുന്ന നേട്ടം കുറവാണ് കാരണം ഇത് വികസിപ്പിക്കുകയും ഒറ്റത്തവണ വരുമാനത്തിൽ വിൽക്കുകയും ചെയ്യുന്നു പിന്നെ എന്തിനാണ് ഇന്ത്യൻ കമ്പനികൾ ഉൽപ്പന്ന തരം പ്രോജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരിക്കത്തത് പക്ഷേ പ്രധാനമായും സേവന വിഭാഗത്തിലാണ് കാരണം പരിശോധിച്ചാൽ ഉൽപ്പന്ന ഇത്തരം പ്രോജക്ടുകൾക്ക് അവയുടെ അന്തർലീനമായ അപകട സാധ്യതയുണ്ട് എന്നതാണ് ഉത്തരം ഉൽപ്പന്ന വികസനം ഉള്ളതോ വിജയിച്ചത് വിജയിക്കാത്ത തോ ആയ എന്തെങ്കിലും വികസിപ്പിക്കുന്നതിന് ധാരാളം പണം നിക്ഷേപിക്കുന്നത് ഉൾപ്പെടുന്നു അതേസമയം ആദ്യം ഒരു സേവന പ്രോജക്ട് അതു പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടെന്ന് ഉറപ്പു നൽകുന്നു മാത്രമല്ല അപകട സാധ്യത ഒഴിവാക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ രൂപയോ നിക്ഷേപിക്കുന്നത് പരിചയപ്പെടാം ഇന്ത്യൻ കമ്പനികൾ പ്രധാനമായും സേവന വിഭാഗത്തിൽ ശ്രദ്ധകേന്ദ്രീകരിച്ചത് കാരണം അതാണ് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ പ്രോജക്റ്റ് മാനേജരുടെ പ്രവർത്തനങ്ങൾ നോക്കാം മാനേജർ എന്താണ് ചെയ്യുന്നത് പ്രോജക്ട് മാനേജർ പ്രവർത്തന ആസൂത്രണത്തിൻറെ വലിയ ഭാഗം ദൈർഘ്യം കണക്കാക്കുക ചെലവ് കണക്കാക്കുക പരിശ്രമം കണക്കാക്കുക വിഭവങ്ങൾ അനുവദിക്കുക ഷെഡ്യൂൾ ചെയ്യുക സ്റ്റാഫിങ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക അവരെ പ്രചോദിപ്പിക്കുക പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞാൽ ജോലികൾ പൂർത്തിയാക്കുന്നതിന് ടീം മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക അതിനാൽ അത് എല്ലാ ദിവസവും പ്ലാൻ അനുസരിച്ച് പ്രവർത്തി പുരോഗമിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുക എന്നാൽ പിന്നീട് ഒരു പദ്ധതി വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുകയും തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അടങ്ങിയിരിക്കും പ്ലാൻ തുടർച്ചയായി മാറ്റേണ്ടത് ആവശ്യമായി വരാം കാരണം തുടക്കത്തിൽ ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് പലതും മുൻകൂട്ടി കാണാൻ കഴിയില്ല അതിനാൽ പദ്ധതി പുരോഗമിക്കുമ്പോൾ പദ്ധതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് പ്രവർത്തി ആസൂത്രണം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് പ്രോജക്ട് മാനേജ്മെൻറ് പ്രവർത്തനം സംഗ്രഹിക്കാം അതായത് നിങ്ങൾ ചെലവിൽ നിന്ന് ആരംഭിക്കുണം പരിശ്രമം ഷെഡ്യൂൾ എന്നിട്ട് പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യുകയും തുടർന്ന് സ്റ്റാഫിങ് നടത്തുകയും തുടർന്ന് പ്രോജക്റ്റ് ആരംഭിക്കുകയും പ്രധാനമായും അത് സംവിധാനം ചെയ്യുകയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും കൂടാതെ ആസൂത്രണം പ്രവർത്തിക്കുന്നു എന്ന്നമ്മൾ ഇതിനെ വിളിക്കുന്നു അതിനാൽ പ്രോജക്ട് മാനേജ്മെൻറ് പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ആസൂത്രണം പ്രവർത്തിക്കുന്നു കൂടാതെ പ്രവർത്തി ആസ്രൂത്രണം ചെയ്യുന്നു ഒരു പ്രോജക്റ്റ് മാനേജരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഈ ചിത്രത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സാധ്യതാ പഠനം നടത്തേണ്ടത് പ്രോജക്റ്റ് മാനേജർമാരുടെ ഉത്തരവാദിത്തമാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് മൂലം വത്താണോ എന്ന പ്രൊജക്ട് മാനേജർ നിർണയിക്കുന്ന സാധ്യതാപഠനം പ്രോജക്റ്റ് മാനേജർ പ്രശ്നം മനസ്സിലാക്കുന്നു ഇതര പരിഹാരങ്ങൾ നിർദേശിക്കുകയും ചെലവ് കണക്കാക്കുകയും ചെയ്യുന്നു സാങ്കേതിക സാധ്യതയും സാധ്യത പഠനത്തിൻറെ ഘട്ടത്തിൽ പ്രൊജക്റ്റ് മാനേജർ തീരുമാനിച്ചേക്കാം ചെലവ് പരിഗണന കണക്കിലെടുത്ത് പദ്ധതി സാധ്യമാണ് സഹൃദയ വികസിപ്പിക്കുന്നതിനുള്ള ചെലവ് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് തുടർന്ന് പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെടും സാങ്കേതികമായി പ്രോജക്ട് ഓർഗനൈസേഷൻ ചെയ്യാൻ കഴിയില്ലെന്നും പ്രോജക്ട് മാനേജർ കണ്ടെത്തിയേക്കാം പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനായി ഉള്ള കഴിവ് നിങ്ങൾക്കില്ല തുടർന്ന് കൂടുതൽ പുരോഗതി ഇല്ലാത്ത പ്രോജക്ട് ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ ഇത് ചെലവ് ആവശ്യകതകളും സാങ്കേതിക സാധ്യതകളും നിറവേറ്റുന്നു എങ്കിൽ പദ്ധതി ആരംഭിക്കുന്നു ആദ്യ പ്രവർത്തനം ആസൂത്രണം ചെയ്യുക എന്നതാണ് ആദ്യ പ്രവർത്തനം നിങ്ങൾ അത് എങ്ങനെ ചെയ്യും എന്നതാണ് ഇവിടെ അതിൽ ദൈർഘ്യം കണക്കാക്കൽ പരിശ്രമം കണക്കാക്കൽ തുടർന്ന് വിഭവ വിഹിതം ഷെഡ്യൂളിങ് എന്നിവ ഉൾപ്പെടുന്നു നമ്മൾ ആസൂത്രണം പോലെ വിളിക്കുന്നു പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രോജക്റ്റ് ആരംഭിക്കുകയും തുടർന്ന് നമുക്ക് പ്രോജക്ട് എക്സിക്യൂഷൻ ഉണ്ട് അവിടെ പ്രോജക്റ്റ് മാനേജർ പദ്ധതി അനുസരിച്ച് പദ്ധതി എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇവിടെ പ്രോജക്റ്റ് മാനേജരുടെ ജോലി പ്രധാനമായും സംവിധാനം ചെയ്യുകയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ആകുന്നു സാധ്യതാ പഠനത്തിൽ രണ്ട് പ്രധാന തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് പ്രോജക്ട് മാനേജർക്ക് ആശങ്കയുണ്ട് ഇത് സാങ്കേതികമായി പ്രായോഗികമാണോ ബിസിനസ് കാഴ്ചപ്പാടിൽ ഇത് മൂല്യവത്താണോ അത് സാമ്പത്തികമായി പ്രായോഗികമാണ് അത് പ്രായോഗികമാണെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമേ ആസൂത്രണം എടുക്കുകയുള്ളൂ ആരംഭിക്കുകയും പ്രോജക്റ്റ് മാനേജരുടെ ജോലി ടീമിനെ നൽകുകയും തുടർന്ന് എക്സിക്യൂഷൻ നിരീക്ഷണവും നിയന്ത്രണവും നടത്തുകയും ചെയ്യുന്നു സാധ്യത പഠനം കഴിഞ്ഞാലുടൻ പദ്ധതി ആസൂത്രണം ആരംഭിക്കുന്നു പ്രോജക്ട് ആയുധം ആണെന്നും അത് ചെയ്യേണ്ടതാണെന്നും കണ്ടെത്തിയാൽ ആസൂത്രണം ചെയ്യപ്പെടും ആസൂത്രണത്തിൽ പ്രധാന പ്രവർത്തനം കണക്കാക്കൽ ആണ് ഈ കോഴ്സിൽ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ വിവിധ ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കുന്നു അത് ഈ കോഴ്സിലെ ഒരു പ്രധാന ഘടകമാണ് കണക്കാക്കി കഴിഞ്ഞാൽ ഏത് സമയത്താണ് എപ്പോൾ പൂർത്തിയാക്കാൻ സാധ്യതയുള്ളത്ആരാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അതിനാൽ അത് പ്രോജക്ട് ഷെഡ്യൂളിൽ ആണ് സ്റ്റാഫിങ് റിസ്ക്മാനേജ്മെൻറ് മറ്റു പല പദ്ധതികളും നമ്മൾ എവിടെ വിവിധപദ്ധതികൾ എന്ന് വിളിക്കുന്നു നമ്മൾ ഈ കോഴ്സിൽ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ മറ്റു പദ്ധതികൾ നോക്കുന്നു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞാൽ നിരീക്ഷണവും നിയന്ത്രണവും ആണ് പ്രധാന പ്രവർത്തനം അതാണ് സാധ്യതാപഠനം ആസൂത്രണം പൂർത്തിയായി പദ്ധതി ആരംഭിക്കുന്നു പ്രോജക്റ്റ് മാനേജർ മാരുടെ പ്രധാന പ്രവർത്തനം നിരീക്ഷണവും നിയന്ത്രണവും ആണ് പ്രോജക്ട് ആരംഭിക്കുന്ന സമയം മുതൽ പ്രോജക്ട് പൂർത്തിയാകുന്നതുവരെ നിരീക്ഷണവും നിയന്ത്രണവും മുഴുവൻ പ്രോജക്ട് കാലയളവിലും നീണ്ടുനിൽക്കും ഇവിടെ പ്രോജക്ട് മാനേജർ എല്ലാദിവസവും പുരോഗതി പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ പദ്ധതി സമയത്തിൽ നിന്നും നേടിയ പുരോഗതിയിൽ നിന്നും വ്യതിചലനം ഉണ്ടെങ്കിൽ പ്രോജക്റ്റ് മാനേജർ ചില തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാം പദ്ധതി പരിഷ്കരിക്കേണ്ട ആവശ്യമാണെന്ന് പ്രോജക്റ്റ് മാനേജർക്ക് കണ്ടെത്താം അതിനാൽ പ്രോജക്റ്റ് മാനേജർ ഇരുന്നു പദ്ധതി പരിഷ്കരിക്കുന്നു പദ്ധതി യിൽ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നു പ്രോജക്ട് മാനേജർ നിയന്ത്രണ നടപടി എടുക്കുന്നു ഉദാഹരണത്തിന് ഡിസൈൻ വളരെയധികം സമയം എടുക്കുന്നു തുടർന്ന് റോളുകൾ മാറ്റിയേക്കാം അധിക ഡിസൈനർമാരെ ലഭിച്ചേക്കാം ഉദാഹരണമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഹാർഡ്വെയർ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകാം പ്രശ്നം മറികടക്കാൻ ഹാർഡ്വെയർ പാട്ടത്തിനു നൽകാൻ പ്രോജക്റ്റ് മാനേജർ തീരുമാനിച്ചേക്കാം അതിനാൽ പരിഹാരങ്ങൾ പ്രോജക്റ്റുകൾ ക്കായുള്ള പുതുമകൾ പ്രോജക്ട് പുരോഗമിക്കുമ്പോൾ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമല്ല മികച്ച മാനേജ്മെൻറ് മായി ക്ലൈറ്ന്റുകളുമായി ഉപയോക്താക്കളുമായി ബന്ധപ്പെടുന്ന പ്രധാന വ്യക്തി പ്രോജക്റ്റ് മാനേജർ മാത്രമല്ലഡെവലപ്പർ മാരും മറ്റു പങ്കാളികളുമാണ് ഈ ഡയഗ്രമിൽ നമ്മൾ നമ്മളുടെ ചർച്ച സംഗ്രഹിക്കുക യാണെങ്കിൽ യഥാർത്ഥ ഉൽപ്പന്ന വികസനം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ആരംഭിക്കുന്ന പ്രോജക്ട് മാനേജ്മെൻറ് പ്രവർത്തനങ്ങളാണ് പദ്ധതി ആസൂത്രണം സാധ്യതാപഠനം പ്രോജക്ട് സമാരംഭം തുടങ്ങിയവ പ്രോജക്ട് മാനേജർ പലതരത്തിലുള്ള പ്രക്രിയകൾ ചെയ്യുന്നു ഉദാഹരണത്തിന് പദ്ധതി ആസൂത്രണം നിയമനം നിരീക്ഷണം തുടങ്ങിയവ അതിനാൽ നമ്മൾ പ്രോജക്ട് മാനേജ്മെൻറ് പ്രോസസറുകൾ എന്ന് വിളിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഡെവലപ്മെൻറ് ടീം അവരുടെ സ്വന്തം പ്രക്രിയകൾ നടപ്പിലാക്കുന്നു ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ എന്ന് നമ്മൾ വിളിക്കുന്നു ഉദാഹരണത്തിന് ആവശ്യകതകൾ നിർവഹിച്ചേക്കാം അവർ കോഡിങ്ങ് ടെസ്റ്റിംഗ് തുടങ്ങിയവ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഡിസൈൻ നടപ്പിലാക്കിയേക്കാം നമ്മൾ ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ എന്നു വിളിക്കുന്നു അതേസമയം പ്രോജക്ട് മാനേജർ പ്രോജക്ട് മാനേജ്മെൻറ് ക്രിയകൾ നടത്തുകയും പ്രോജക്ട് ലൈഫ് സൈക്കിൾ ഇതിലൂടെ പ്രോജക്ട് മാനേജ്മെൻറ് പ്രക്രിയകൾ നടത്തുകയും ചെയ്യുന്നു അതേസമയം ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ വികസന ജീവിത ചക്രത്തിൽ അടിയിൽ ആണ് നടത്തുന്നത് ഈ രേഖ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പ്രോജക്ട് ലൈഫ് സൈക്കിൾ വികസന ജീവിത ചക്ര ത്തേക്കാൾ കൂടുതലാണ് ഇതോടെ നമ്മൾ ഒരു ഇടവേള എടുക്കുകയും അടുത്ത പ്രഭാഷണത്തിൽ തുടരുകയും ചെയ്യും